ചാർജ് ഡിസ്ട്രിബ്യുഷൻ മൂലമുള്ള ഇലക്ട്രിക്ക് ഫീൽഡ് മുൻപുള്ള ക്ലാസ്സുകളിൽ നാം ചാർജുകളും ചാർജ് ഡിസ്ട്രിബ്യുഷനുകളും മൂലമുള്ള ഇലക്ട്രിക്ക് ഫീല്ഡിനെപ്പറ്റി ചർച്ച ചെയ്തു ശരിക്കും q ചാർജിൻമേലുള്ള ഫോഴ്സ് കണക്കാക്കിയപ്പോൾ നാം ചാർജ് ഡിസ്ട്രിബ്യുഷൻ മൂലമുള്ള ഫോഴ്സ് ഉം കണക്കാക്കി എന്തെന്നാൽ ഞാൻ ചെറിയ ചാർജ് q എന്നത് 1 എന്ന് എടുക്കുകയാണെങ്കിൽ ഇത് ഇലക്ട്രിക്ക് ഫീൽഡ് ആയി മാറുന്നു നമുക്ക് ഇലക്ട്രിക്ക് ഫീൽഡ് കണക്കാക്കുന്ന കൂടുതൽ ഉദാഹരണങ്ങൾ ഈ ലെക്ച്ചറിൽ ചെയ്യാം രണ്ട് ഉദാഹരണങ്ങൾ ഇവിടെ ചെയ്യാം രണ്ടും പ്രധാനപ്പെട്ടവയാണ് ഭാവിയിൽ ഇവ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും ഞാൻ ഉദാഹരണം 1a യിലെ ഇലക്ട്രിക്ക് ഫീൽഡ് കണക്കാക്കാൻ പോകുകയാണ് ഒരു ഇലക്ട്രിക്ക് ഡൈപോൾ മൂലവും കൂടാതെ ഒരു സർഫേസ് ചാർജ് മൂലവും എക്സാംപ്ൾ രണ്ടിൽ അത് പോലെയുള്ള സാഹചര്യങ്ങളിൽ കൈകാര്യം ചെയ്യാൻ വേണ്ട ഒരു സൂത്രം നിങ്ങൾക്കു മനസിലാക്കാം ഈ രണ്ട് അവസ്ഥകളിലും നാം ചില ലിമിറ്റിങ് പ്രവർത്തനങ്ങൾ ചെയ്യും ഇത് വളരെ പ്രധാനപ്പെട്ടതും അറിവുണ്ടാക്കുന്നതുമായ ഒരു ലെക്ച്ചറാണ് ഒരു ഡൈപോൾ മൂലമുള്ള ഫീൽഡ് കണക്കാക്കുന്നതിന് ഞാൻ കൂടുതൽ വ്യക്തമായി ഒരു പോയിന്റ് ഡൈപോൾ എടുക്കുന്നു നാം q q എന്നീ ചാർജുകൾ 2a അകലത്തിൽ വച്ചിട്ടുള്ള ഒരു ഡൈപോളാണ് എടുക്കുന്നത് അപ്പോൾ ഡൈപോൾ മോമെന്റിന്റെ അളവ് 2qa ആണ് കൂടാതെ മോമെന്റിന്റെ ദിശ നെഗറ്റീവ് ചാർജിൽ നിന്നും പോസിറ്റീവ് ചാർജിലേക്കാണ് അപ്പോൾ യുടെ ദിശ പോസിറ്റീവ് ൽ നിന്നും നെഗറ്റീവിലേക്ക് ആയിരിക്കും ഡൈപോൾ കേന്ദ്രത്തിൽ z ദിശയിലാണെന്ന് ഞാൻ സങ്കല്പിക്കുകയാണെങ്കിൽ a യിലെ ചാർജ് q z ൽ a qa a ൽ q എന്ന് എനിക്ക് എടുക്കാൻ കഴിയും അപ്പോൾ ഡൈപോൾ മോമെന്റ്റ് എന്നത് z ദിശയിൽ 2qa ക്കു തുല്യമായിരിക്കും ഇത് ഒരു പോയിന്റ് ഡൈപോൾ ആക്കുവാൻ വേണ്ടി അവസാനമായി നാം ചെയ്യാൻ പോകുന്നത് എയുടെ പരിധി 0 ത്തിലേക്കും q വിന്റേത് ഇൻഫിനിറ്റി യിലേക്കും എടുക്കുക എന്നതാണ് അപ്പോൾ qa എന്നത് ഫൈനൈറ് ആയിരിക്കും കൂടാതെ ഏതെങ്കിലും ക്കു തുല്യമായിരിക്കും അങ്ങനെ അത് ഒരു പോയിന്റ് ഡൈപോൾ ആകുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ പോയിന്റ് ഡൈപോൾ കാരണമുള്ള ഫീൽഡ് കണക്കാക്കാം ഞാൻ ഇത് ഒന്നുകൂടി വിശദീകരിക്കുവാൻ പോകുകയാണ് ഇതാണ് എന്റെ പോയിന്റ് ഡൈപോൾ q ഇവിടെ ഇരിക്കുന്നു q ഇവിടെ ഇരിക്കുന്നു അപ്പോൾ ഏതെങ്കിലും വെക്ടർ r ൽ ഉള്ള ഫീൽഡ് 1 4 0 q ആയിരിക്കും പോസിറ്റീവ് ചാർജ് എനിക്ക് z ദിശയിൽ q എന്ന ഫീൽഡ് നൽകുന്നു ഞാൻ ഇവിടെ ഒരു ക്യൂബ് എഴുതാം മുകളിൽ ഒരു വെക്ടർ എഴുതാം പോസിറ്റീവ് ചാർജ് മൂലം ഒരു ഫീൽഡ് ഉണ്ട് നെഗറ്റീവ് ചാർജ് മൂലമുള്ള ഫീൽഡ് q r az r az 3 ആയിരിക്കും ഇത് കൂടുതൽ സ്പഷ്ടമാക്കുന്നതിനായി ഞാൻ ഈ പോയിന്റ് r വരയ്ക്കട്ടെ ഇത് വെക്ടർ r az ആണ് ഇവിടെ താഴെയുള്ളത് r az ആണ് നമുക്ക് ഈ ഫീൽഡ് കണക്കാക്കണം അവസാനമായി qa യുടെ പരിധി ഒരു പരിമിത സംഖ്യ ആണെന്ന് എടുക്കുക നാം എ യുടെ പരിധി 0 എന്ന് ആദ്യമേ എടുക്കുന്നത് കാരണം എനിക്ക് താഴെയുള്ള ഈ രണ്ടു സംഖ്യകളെ വികസിപ്പിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് r az ന്റെ മോഡ്യൂലസ് എഴുതാം ഞാൻ ഇവിടെ മൈനസ് ഇടുവാൻ പോകയാണ് ഇത് r2 a2 2ar r യൂണിറ്റ് വെക്ടറിന്റെയും z യൂണിറ്റ് വെക്ടറിന്റെയും ഡോട്ട് ഗുണിതത്തിന്റെ റൂട്ട് അതായത് cos12 കൂടാതെ ഇവിടെ മൈനസ് ചിഹ്നം a 0 യിലേക്ക് പോകുന്നു എന്ന് ഞാൻ എടുക്കുന്നു കാരണം a r നെ ക്കാൾ വളരെ ചെറുതാണ് അതിനാൽ a2 ടേം കളയാം ഈ ടേം മാത്രം എടുക്കാം അപ്പോൾ നമുക്ക് ബൈനോമിയൽ തിയറം ഉപയോഗിച്ച് ഇതിനെ r ഗുണം 1 പ്ലസ് ഓർ മൈനസ് 2 a ഭാഗം r കോസൈൻ തീറ്റ റൈസ്ഡ് ടു 1 2 എന്ന് കണക്കാക്കാം ഇങ്ങനെ നമുക്ക് raz3 r 3 3 2 എന്ന് എഴുതാം ബൈനോമിയൽ തിയറം അനുസരിച്ച് ഇത് r3 ആകും അതിനാൽ കേന്ദ്രത്തിൽ ഉള്ള ഈ ഡൈപോൾ കാരണം r അകലത്തിൽ ഉണ്ടാകുന്ന ഈ ഫീൽഡ് കണക്കാക്കപ്പെടുന്നത് Er സമം q4 പൈ എപ്സിലോൺ 0 ഗുണം വെക്ടർ r മൈനസ് az ഭാഗം r ക്യൂബ്ഡ് ഗുണം 1 പ്ലസ് 3ar കോസ് തീറ്റ താഴെ ഫോർമുല കാണുക ഞാൻ വീണ്ടും ബൈനോമിയൽ തിയറം ഉപയോഗിക്കാൻ പോകയാണ് പർപ്പിൾ നിറത്തിൽ വൃത്തമിട്ടിട്ടുള്ള സംഖ്യകൾ മുകളിലേക്കെടുത്ത് ഇത് പൂർണമായി എഴുതുക Er q 4 ൦r3 ഞാൻ r3 വെളിയിൽ എടുക്കുന്നു ഉള്ളിൽ എനിക്കുള്ളത് 1 3a r cos θ ആണ് ഞാൻ ഇത് a യുടെ 1st ഓർഡറിലുള്ള ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തി വികസിപ്പിക്കാം അപ്പോൾ എനിക്ക് ലഭിക്കുന്നത് Er സമം q ഭാഗം 4 പൈ എപ്സിലോൺ 0 r3 ഗുണം r പ്ലസ് 3a r r വെക്ടർ കോസ് തീറ്റ മൈനസ് az r 3 a r r വെക്ടർ കോസ് തീറ്റ ഈ നീല നിറത്തിലുള്ളത് രണ്ടാമത്തെ സംഖ്യ മൈനസ് az ആണ് ഞാൻ ശരിയായി ആണോ ചെയ്യുന്നത് എന്ന് പരിശോധിക്കട്ടെ റെഫർ സ്ലൈഡ് സമയം 09 24 അതെ ഇത് തീർച്ചയായും ശരിയാണ് അപ്പോൾ r വെക്ടറിനെ r കൊണ്ട് ഹരിച്ചാൽ യൂണിറ്റ് വെക്ടർ r കിട്ടും അപ്പോൾ എനിക്ക് Er നെ q ഭാഗം 4 പൈ എപ്സിലോൺ 0 r ക്യൂബ്ഡ് അങ്ങനെ ഈ സംഖ്യാ റദ്ദാക്കപ്പെടുന്നു ഉള്ളിൽ എനിക്ക് 6ar യൂണിറ്റ് വെക്ടർ കോസ് തീറ്റ മൈനസ് 2az കിട്ടുന്നു അതിനെ എനിക്ക് 2a പുറത്തെടുത്ത് 2aq ഭാഗം 4 പൈ എപ്സിലോൺ 0 ഗണം 3 കോസ് തീറ്റ r യൂണിറ്റ് വെക്ടർ മൈനസ് z എന്നെഴുതാൻ സാധിക്കും ഞാൻ ഇപ്പോൾ കൂടുതൽ പൊതുവായി നോക്കുമ്പോൾ മനസ്സിലാകുന്നത് വെക്ടർ 2aqz ന് തുല്യമാണ് അതിനാൽ 2aq സംഖ്യ ആദ്യത്തെ സംഖ്യയുമായി ചേർന്ന് 2aq ഗുണം 3 കോസ് തീറ്റ r കോസൈൻ തീറ്റ എന്നത് z ഡോട്ട് r r യൂണിറ്റ് വെക്ടർ അല്ലാതെ മറ്റൊന്നുമമല്ല അതിനാൽ ഇത് 2aqz ഡോട്ട് r ഗുണം r യൂണിറ്റ് വെക്ടർ ഗുണം 3 അതായത് 3 ഡോട്ട് rr എന്ന് എഴുതാം അത് പോലെ 2aqz ഈ മുഴുവൻ സംഖ്യ z മായി ചേർന്ന് ആകുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല ഞാൻ ചെയ്യുന്ന പരിധി a 0 ത്തിലേക്ക് പോകുന്നു q ഇൻഫിനിറ്റി യിലേക്ക് പോകുന്നു അതിനാൽ 2qa യിലേക്ക് പോകുന്നു എന്ന് ഓർമ്മിക്കുക അപ്പോൾ ഇതെല്ലം ചേർത്ത് എനിക്ക് Er നെ ഡോട്ട് rr ഈ 3 നോട് കൂടി മൈനസ് ഭാഗം 4 പൈ എപ്സിലോൺ 0 r3 എന്ന് എഴുതാം ഒരു ഡൈപോൾ ഏതു ദിശയിൽ കേന്ദ്രത്തിൽ ഇരുന്നാലും ഉള്ള എക്സ്പ്രെഷൻ ഇതാണ് ഞാൻ ഇപ്പോൾ ഡോട്ട് പ്രോഡക്ട് എടുക്കുന്നത് കാരണം ഡോട്ട് പ്രോഡക്ട് എനിക്ക് കോസൈൻ തീറ്റ നൽകുന്നു അതിനാൽ പ്രശ്നമില്ല ഡൈപോൾ r ' എന്ന പോയിന്റിലാണെന്ന് സങ്കൽപ്പിക്കുക അപ്പോൾ ഈ r ആ പോയിന്റിൽ നിന്നുള്ള ദൂരത്തെ സൂചിപ്പിക്കുന്നു കൂടാതെ എനിക്ക് Er എന്നത് 3 ഡോട്ട് r ദിശയിലുള്ള യൂണിറ്റ് വെക്ടർ മൈനസ് ആ ദിശയിലുള്ള r ' യൂണിറ്റ് വെക്ടർ ആണ് യൂണിറ്റ് വെക്ടർ r മൈനസ് r ' മൈനസ് ഭാഗം 4 പൈ എപ്സിലോൺ 0 r r '3 എന്നത് വ്യക്തമായി എനിക്ക് 3 ഡോട്ട് വെക്ടർ r r ' ഗുണം r r ' എന്നും എഴുതാം ഞാൻ വെക്റ്ററുകൾ കൊണ്ട് ഗുണിച്ചതു കാരണം ഞാൻ r r '5 മൈനസ് ഭാഗം r r ' 3 കൊണ്ട് ഭാഗിക്കും ഇവിടെ 1 ഭാഗം 4 പൈ എപ്സിലോൺ 0 വെളിയിൽ വരും താഴെയുള്ള ഫോർമുല കാണുക ഞാൻ എടുക്കുവാൻ പോകുന്ന അടുത്ത ഉദാഹരണത്തിൽ നമുക്ക് ഗാസ് നിയമം ഉപയോഗിക്കാം ഇതിൽ ഞാൻ ഒരു പോസിറ്റീവ് ആയി ചാർജ് ചെയ്ത ഗോളം എടുത്ത് അതിനെ ഒരു നെഗറ്റീവ് ആയി ചാർജ് ചെയ്ത ഗോളത്തിന്റെ മുകളിൽ വയ്ക്കുന്നു അതിനു ശേഷം ഈ സംവിധാനം മൂലം അവ രണ്ടും ഒന്നിന് മുകളിൽ ഒന്നായിരിക്കുന്ന ഈ ഭാഗത്തു വരുന്ന ഫീൽഡ് കണക്കാക്കുന്നു ഒരു രീതിയിൽ ഇലക്ട്രിക്കലായി നോക്കിയാൽ ഈ ഭാഗത്ത് ചാർജ് ഡെന്സിറ്റി ഇല്ലായിരിക്കും അതായത് 0 ആയിരിക്കും എന്ന് വിചാരിക്കാം എന്തെന്നാൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ അന്യോന്യം ക്യാൻസൽ ചെയ്യപ്പെടുന്നു അത് പോലെ ഇത് ഒരു പൊള്ളയായ ഭാഗം ആണെന്നും ചിന്തിക്കാം ഇലക്ട്രിക്കലായി ഇത് ഒരു വിഷയമല്ല ഒരു രീതിയിൽ നാം ഒരു പൊള്ളയായ ഭാഗത്തുള്ള ഫീൽഡ് കണക്കാക്കുന്നു വെളിയിലെ ഒരു വശത്തുള്ള ചാർജ് പോസിറ്റീവും മറുഭാഗത്തെ ചാർജ് നെഗറ്റീവും ആയിരിക്കുമ്പോൾ ഇത് ഒരു പൊള്ളയായ ഫീൽഡ് ആണ് ഈ രണ്ടു കേന്ദ്രങ്ങളും a എന്നൊരു അകലത്തിലാണ് എന്ന് വിചാരിക്കുക ഞാൻ ഈ സാഹചര്യത്തിൽ ലിമിറ്റ് കണക്കാക്കുവാൻ പോകയാണ് ഈ ചാർജുകൾ കൂടുതൽ ഭാഗത്തും ഒന്നിന് മുകളിൽ ഒന്നായി വരും അതിനാൽ ഈ നെഗറ്റീവ് വശം എനിക്ക് ഒരു കനം കുറഞ്ഞ നെഗറ്റീവ് ചാർജ് ഭാഗവും ഈ പോസിറ്റീവ് വശം എനിക്ക് ഒരു കനം കുറഞ്ഞ പോസിറ്റീവ് ചാർജ് ഭാഗവും നൽകും മധ്യ ഭാഗത്ത് ചാർജുകളുടെ അളവ് ഏറ്റവും കൂടുതലാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും വശങ്ങളിലേക്ക് പോകുന്തോറും ഇത് കുറഞ്ഞു വന്ന് ഈ ഭാഗം പൊള്ള യാകുന്നു ഉചിതമായ ലിമിറ്റ് കൾ എടുത്താൽ a യുടെ പരിധി 0 യിലേക്ക് ഈ ചാർജ് ഡെന്സിറ്റി യുടെ പരിധി ഇൻഫിനിറ്റിയിലേക്ക് അങ്ങനെ സർഫേസിലെ ചാർജ് ഫിനിറ്റി ആയി നിലനിൽക്കും ഒരു സർഫേസ് ചാർജ് ഡിസ്ട്രിബ്യുഷൻ റോ തീറ്റ അല്ലെങ്കിൽ സിഗ്മ തീറ്റ അതായത് ഒരു സ്ഥിരസംഖ്യ ഗുണം കോസ് തീറ്റ കാരണമുള്ള ഇലക്ട്രിക്ക് ഫീൽഡ് എനിക്ക് കിട്ടും ഞാൻ വീണ്ടും ഒരു പരിധി നിർണയ പദ്ധതി ഉപയോഗിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് കാണാം അപ്പോൾ നമുക്ക് സർഫേസ് ൽ സമമായി പരന്നിരിക്കുന്ന r ചാർജുള്ള ഒരു ഗോളം എടുക്കാം ഈ പ്രശനം നിങ്ങൾ 12 ആം ക്ലാസ്സിൽ ചെയ്തിരിക്കും നിങ്ങൾ ഗാസ് നിയമം പ്രയോഗിച്ച് r അകലത്തിൽ ഉള്ളിലെ ഫീൽഡ് കണക്കാക്കുകയാണെങ്കിൽ ഈ ഫീൽഡ് r 3 ൦ ആയിരിക്കും പക്ഷെ നമുക്കിത് സ്പഷ്ടമായി ചെയ്യാം E ഡോട്ട് ds ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ചാർജ് ഭാഗം എപ്സിലോൺ 0 നൽകുന്നു ഞാൻ ഉള്ളിലെ തലം എടുക്കുകയാണെങ്കിൽ E ഡോട്ട് ds എന്നത് r ലെ E ഗുണം 4 പൈ r 2 ഉം ഉൾക്കൊണ്ടിരിക്കുന്ന ചാർജ് 4 പൈ r 3 ഭാഗം എപ്സിലോൺ 0 ഇവിടെ 4 പൈ ക്യാൻസൽ ആകുന്നു r 2 ക്യാൻസൽ ആകുന്നു എനിക്ക് ഒരു r കിട്ടുന്നു അത് കൊണ്ട് r ലെ ഫീൽഡ് റോ ആകുന്നു r ലെ ഫീൽഡിന്റെ അളവ് റോ r ഭാഗം 3 എപ്സിലോൺ 0 ആകുന്നു ഞാൻ r ലെ വെക്ടർ ഫീൽഡ് vE ഇതിന്റെ ദിശ റേഡിയല്ലായി വെളിയിലേക്കാണ് ഗോള പോളാർ കോ ഓർഡിനേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്കിത് റോ വെക്ടർ r ഭാഗം 3 എപ്സിലോൺ 0 എഴുതാം ഇതാണ് മേഖല ഇപ്പോൾ നമുക്ക് നമ്മുടെ ചർച്ചയിലുള്ള ഈ രണ്ടു ചാർജുകളും ഒന്നിന് മുകളിൽ ഒന്നായി വയ്ക്കുക പോസിറ്റീവ് ചാർജ് ഇവിടെ ന്യൂനച്ചാർജ് ഇവിടെ ഈ r അകലത്തിലുള്ള പോസിറ്റീവ് ചാർജ് ഇത് പോലെ റേഡിയല്ലായി വെളിയിലേക്ക് പോകുന്ന ഒരു ഫീൽഡ് നൽകുന്നു ഞാൻ നെഗറ്റീവ് ചാർജ് നോക്കുകയാണെങ്കിൽ അത് എനിക്ക് കേന്ദ്രത്തിലേക്ക് പോകുന്ന ഒരു ഫീൽഡ് നൽകുന്നു എന്തെന്നാൽ ഏതൊരു പോയിന്റിലും നെഗറ്റീവ് ചാർജ് ആണ് അപ്പോൾ ഈ ചിത്രം വീണ്ടും ഞാൻ വരയ്ക്കട്ടെ ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കാം ഇവിടെയുള്ള പോയിന്റ് ഇവിടെ അധികചാർജ് മൂലമുള്ള ഇലക്ട്രിക്ക് ഫീൽഡ് ഇവിടെ നെഗറ്റീവ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക്ക് ഫീൽഡ് ഞാൻ ഈ വെക്ടറിനെ ഇത് r1 വെക്ടർ എന്നും കേന്ദ്രത്തിലേക്കുള്ള ഇലക്ട്രിക്ക് ഫീൽഡ് കണക്കാക്കുന്ന ഈ പോയിന്റിലെ വെക്ടറിനെ ഇത് r2 വെക്ടർ എന്നും വിളിക്കുന്നു അപ്പോൾ ഈ പോയിന്റിലെ ഇലക്ട്രിക്ക് ഫീൽഡ് കുറച്ച് പോസിറ്റീവ് ചാർജ് മൂലവും കുറച്ച് നെഗറ്റീവ് ചാർജ് മൂലവും ഉള്ളതിന്റെ തുകയായിരിക്കും ഞാൻ ഇത് എഴുതാൻ പോകുകയാണ് ഇവിടെ റോ r1 ഭാഗം 3 എപ്സിലോൺ0 r2 ഇതേ ഇലക്ട്രിക്ക് ഫീൽഡിന്റെ ദിശയിലാകയാൽ എനിക്കിത് അധികം റോ r2 ഭാഗം 3 എപ്സിലോൺ 0 എഴുതാം രണ്ടും കൂടി ചേരുമ്പോൾ റോ ഭാഗം 3 എപ്സിലോൺ 0 വെളിയിൽ കൊണ്ട് വരാം ഇവിടെ എനിക്ക് r1r2 ഇത് r1 വെക്ടർ ഇത് r2 വെക്ടർ അങ്ങനെ അവയുടെ തുക ഈ വെക്ടറാണ് ഇതിന്റെ അളവ് ഗോളകേന്ദ്രങ്ങൾ തമ്മിലുള്ള അകലം വെക്ടർ പോസിറ്റീവ് ചാർജിൽ നിന്നും നെഗറ്റീവ് ചാർജിലേക്കും അപ്പോൾ എനിക്കിത് റോ വെക്ടർ a ഭാഗം 3 എപ്സിലോൺ 0 എന്നെഴുതാൻ സാധിക്കും ഇത് വളരെ താല്പര്യമുളവാക്കുന്ന ഫലമാണ് എന്തെന്നാൽ ഇപ്പോൾ നിങ്ങൾ ഈ രണ്ടു ഫീൽഡ് കളുടെ സംഭാവന നോക്കുക ഞാൻ ഇവിടെയുള്ള ഈ നെഗറ്റീവ് ചാര്ജും ഇവിടെയുള്ള ഈ പോസിറ്റീവ് ചാര്ജും എടുക്കുകയാണെങ്കിൽ ഈ പൊള്ളയായ സ്ഥലത്തു എല്ലായിടത്തും ഫീൽഡ് തുല്യമാണ് ഇത് നെഗറ്റീവ് വശത്തു നിന്നും പോസിറ്റീവ് വശത്തേക്ക് പോകുന്നു ഇതിന്റെ അളവ് ഈ രണ്ടു ചാർജ് ഡെന്സിറ്റി കളും തുല്യമായിരിക്കുമ്പോൾ റോ എ ഭാഗം 3 എപ്സിലോൺ 0 ആണ് ഇങ്ങിനെയാണ് ഇവയെല്ലാം കണക്കാക്കുന്നത് കൂടാതെ ദിശ പോസിറ്റീവ് ചാർജിന്റെ കേന്ദ്രത്തിൽ നിന്നും നെഗറ്റീവ് ചാർജിന്റെ കേന്ദ്രത്തിലേക്കാണ് ഇത് വളരെ താല്പര്യമുളവാക്കുന്ന ഫലമാണ് നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും ഈ പൊള്ളയായ ഭാഗത്ത് ഫീൽഡ് സ്ഥിരമാണ് ഇപ്പോൾ നാം ഈ വസ്തുത ഒരു സർഫേസ് ചാർജ് ഡിസ്ട്രിബ്യുഷൻ മൂലമുള്ള ഫീൽഡ് കണക്കാക്കുന്നതിന് ഉപയോഗിക്കാൻ പോകുകയാണ് ഞാൻ ഇപ്പോൾ ഈ ഗോളങ്ങൾ എടുക്കാം ഇവ കൂടുതൽ ഭാഗവും ഒന്നിന് മുകളിൽ ഒന്നായിരിക്കുന്നു അവ ഒരു ചെറിയ വെക്ടർ എ അകലത്തിൽ ഇരിക്കുന്നു ഇവയാണ് കേന്ദ്രങ്ങൾ ഈ ഭാഗത്തെ ചാർജ് എത്രയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഞാൻ ഗോള പോളാർ കോ ഓർഡിനേറ്റുകൾ ഉപയോഗിക്കുന്നത് കാരണം ഞാൻ ഈ സംവിധാനം ലംബമാക്കുന്നത് നമ്മെ സഹായിക്കും ഇതാണ് രണ്ടു ഗോളങ്ങളുടെയും കേന്ദ്രം അവ തങ്ങളിലുള്ള അകലം തീരെ ചെറുതാകയാൽ എനിക്ക് ഏതാണ്ട് ഒരു പൊതു കേന്ദ്രം തന്നെ എടുക്കാം എനിക്ക് ഈ വോളിയമിലെ ചാർജ് കണക്കാക്കണം ഓർമിക്കുക ഈ വോളിയം ഭാഗം എത്രയാണ് ഈ ചെറിയ വോളിയം എലമെന്റ് dv വീണ്ടും വളരെ ചെറിയ a ആണ് a എന്നത് ഗോളത്തിന്റെ റേഡിയസിനെക്കാൾ വളരെ വളരെ ചെറുതാണ് എ യഥാർത്ഥത്തിൽ 0 ലേക്ക് പോകുന്നു അപ്പോൾ എനിക്കിത് R 2 d കോസൈൻ തീറ്റ എന്ന് എഴുതാം എന്തെന്നാൽ ഈ ആംഗിൾ തീറ്റ d ഗുണം dr ആണ് dr എന്നത് റേഡിയൽ ദിശയിലുള്ള അകലമാണ് അപ്പോൾ വീണ്ടും ഞാൻ ഈ പ്രത്യേക വോളിയം എലമെന്റ് എടുക്കുന്നു ഈ അകലം dr ആണ് എത്രയാണ് dr ഇവ a അകലത്തിൽ മാറിയിരിക്കുന്നു എന്ന് നാം പറഞ്ഞത് ഓർമ്മിക്കുക അപ്പോൾ ഇവിടത്തെ ഈ അകലം a ആണ് ഈ അകലം a ഇത് dr ഈ ആംഗിൾ തീറ്റ അപ്പോൾ dr എന്നത് a ഗുണം കോസ് തീറ്റ എന്ന് നമുക്ക് കാണാം അപ്പോൾ എനിക്ക് ഈ ചെറിയ വോള്യുമിനെ R2 d കോസൈൻ തീറ്റd ഗുണം a കോസൈൻ തീറ്റ എന്നെഴുതാം അതിനാൽ ഈ ഭാഗത്തെ ചാർജ് dQ എന്നത് റോ അതായത് ഡെന്സിറ്റി ഗുണം കോസൈൻ തീറ്റ ആകും ഞാൻ a യും ഇവിടെ കൊണ്ട് വരട്ടെ ഗുണം R2 d കോസൈൻ തീറ്റd നമ്മുടെ ഒരു മുൻ ലെക്ച്ചർ ഓർമ്മിക്കുക അത് പ്രകാരം ഇത് ഗോളത്തിന്റെ റേഡിയൽ ദിശയിലുള്ള ഏരിയ എലമെന്റ് അല്ലാതെ ഒന്നുമല്ല അതിനാൽ ഇത് റോ കോസൈൻ തീറ്റ ds തന്നെയാണ് അതിനാൽ എനിക്ക് ഇപ്പോൾ ഉള്ള സാഹചര്യം ഞാൻ ഇത് ഒരു ഒറ്റ ഗോളമായി വിചാരിക്കുകയാണെന്കിൽ എനിക്ക് ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ട് അത് റൊ എ കോസ് തീറ്റ ds ഇത് എനിക്ക് ഇങ്ങനെ സർഫേസ് ചാർജ് സിഗ്മ ഗുണം ds ഏന്ന് എഴുതാൻ കഴിയും ds തീറ്റയെ ആശ്രയിച്ചായിരിക്കും കൂടാതെ സിഗ്മ തീറ്റ എന്നത് ഏതെങ്കിലും റൊ എ കോസ് തീറ്റ ആയിരിക്കും പരിധി എ 0 യിലേക്കും റൊ ഇൻഫിനിറ്റി യിലേക്കും പോകുമ്പോൾ റോ എ ഏതെന്കിലും സിഗ്മ 0 യിലേക്ക് പോകുന്നു സിഗ്മ തീറ്റ യെ എനിക്ക് സിഗ്മ 0 കൊസൈൻ തീറ്റ എന്നെഴുതാൻ സാധിക്കും പക്ഷേ ഇവ രണ്ട് സ്ഥാനചലനം സംഭവിച്ച ഗോളങ്ങളാണ് അപ്പോൾ ഫീൽഡ് കാണപ്പെടുന്നത് ഇങ്ങനെയാണ് ഫീൽഡ് പോസിറ്റീവ് വശത്ത് നിന്നും നെഗറ്റീവ് വശത്തേക്കുള്ള ദിശയിൽ ആയിരിക്കും അതിനാൽ ഇലക്ട്രിക്ക് ഫീൽഡ് നാം നേരത്തെ കണ്ടുപിടിച്ചത് ഓർമ്മിക്കുക റോ എ ഭാഗം 3 എപ്സിലോൺ 0 റോ എ ഭാഗം 3 എപ്സിലോൺ 0 z ആകുന്നു ഇത് നെഗറ്റീവ് z ദിശയിൽ ആയിരിക്കും നാം എന്താണ് ഉപസംഹരിക്കുന്നത് എനിക്ക് ഒരു ഗോളം ഏതെങ്കിലും ആക്സിസിൽ നിന്നുള്ള ആംഗിളിനെ ആശ്റയിച്ചിരിക്കുന്ന സിഗ്മ സർഫേസ്ൽ വരുന്നത് ഏതെങ്കിലും ആക്സിസിൽ നിന്നും തീറ്റ കോണിൽ പോകുകയാണ് എങ്കിൽ സിഗ്മ തീറ്റ സിഗ്മ 0 കൊസൈൻ തീറ്റ ആണ് അപ്പോൾ ഇവിടെ എല്ലാം പോസിറ്റീവ് ചാർജ് മറുവശത്ത് എല്ലാം നെഗറ്റീവ് ചാർജ് ഏറ്റവും കൂടുതൽ ആക്സിസിൽ പിന്നീട് ഇത് ഇവിടെ 0 ത്തിലേക്ക് കുറയും അപ്പോൾ E ഫീൽഡ് ഉള്ളിൽ സ്ഥിരമായിരിക്കും ഇത് സിഗ്മ 0 ഭാഗം 3 എപ്സിലോൺ 0 പോസിറ്റീവ് വശത്ത് നിന്നും നെഗറ്റീവ് വശത്തേക്ക് ചൂണ്ടുന്നു അത് ഒരു സുപ്റധാനമായ ഫലമാണ് നിങ്ങൾ ഇവിടെ ഗാസ്സ് നിയമം രണ്ട് ചാർജ് ഡിസ്ട്രിബ്യുഷൻന്റെ കാര്യത്തിൽ എങ്ങിനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പഠിച്ചു കൂടാതെ ഇത് നിങ്ങൾക്ക് ഒരു പ്രത്യേക സർഫേസ് ചാർജ് ഡെന്സിറ്റി ഉണ്ടെന്കിൽ ഈ ഗോളത്തിൽ ഉള്ളിൽ ഒരു സ്ഥിരമായ ഫീൽഡ് ഉണ്ടെന്ന ഫലം ലഭിക്കും